എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഐഐടി കാൺപൂരിൽ നിന്നുള്ള എൻപിടിഇഎൽ എംഒഒസി കോഴ്സാണിത് ഞാൻ രവിചന്ദ്രയാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നു നമ്മൾ ഈ കോഴ്സിന്റെ നാലാം ആഴ്ചയിലാണ് മൊഡ്യൂൾ നമ്പർ 2 ലെക്ചർ നമ്പർ 20 ഇപ്പോൾ ഈ ആഴ്ച ആശയവിനിമയത്തിലും സോഫ്റ്റ് സ്കിൽ ആശയവിനിമയവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ അർത്ഥത്തിൽ ആശയവിനിമയത്തിന്റെയും സോഫ്റ്റ് സ്കിൽസിന്റെയും അവിഭാജ്യ ഘടകമായി കേൾക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആശയവിനിമയത്തിന്റെ അവിഭാജ്യ ഘടകമായി ഞങ്ങൾ ശ്രവണത്തെ നോക്കി വായന സംസാരം എഴുത്ത് എന്നിവയ്ക്കൊപ്പം ആശയവിനിമയത്തിന്റെ അവിഭാജ്യഘടകമെന്ന നിലയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്നതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും ഞാൻ നിങ്ങൾക്ക് നീക്കംചെയ്തു ഉദാഹരണത്തിന് ഒരു നല്ല പ്രഭാഷകനാകാൻ നിങ്ങൾ ഒരു ശ്രോതാവായിരിക്കണമെന്നില്ല എന്ന തെറ്റിദ്ധാരണയാണ് ആളുകൾക്കുള്ളത് അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് അത് ഞാൻ മായ്ച്ചു കളഞ്ഞു സംസാരിച്ചാൽ മാത്രം ഊർജ്ജം ഉപയോഗിക്കുന്നു കേൾക്കാത്തത് കാരണം കേൾക്കുന്നത് ഒരു നിഷ്ക്രിയ പ്രവർത്തനമാണെന്ന് ആളുകൾ കരുതുന്നു അപ്പോൾ അത് ഒരു ഊർജ്ജവും ഉപയോഗിക്കുന്നില്ല എന്നതുപോലുള്ള മറ്റ് തെറ്റിദ്ധാരണകളും ഉണ്ട് തുടർന്ന് കേൾവിയും കേൾവിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കേൾക്കുന്നത് അടിസ്ഥാനപരമായി ഒരു ശാരീരിക പ്രവർത്തനമാണ് തുടർന്ന് അതിൽ ബോധപൂർവമായ മനസ്സിന്റെ പ്രക്രിയ ഉൾപ്പെടുന്നില്ല അതിനാൽ അത് അബോധാവസ്ഥയിലായിരിക്കാം അത് നമ്മുടെ മറ്റേതെങ്കിലും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നില്ല സ്വീകരിക്കൽ തിരഞ്ഞെടുക്കൽ ഓർഗനൈസേഷൻ സ്വാംശീകരണം വ്യാഖ്യാനം വിലയിരുത്തൽ പ്രതികരണം എന്നിവ ഉൾപ്പെടുന്ന ഒരു മാനസിക പ്രവർത്തനമാണ് കേൾക്കൽ ഒരു നല്ല ശ്രോതാവാകാനുള്ള ആദ്യപടി ഒരാളുടെ മനസ്സിൽ വളരെ തുറന്ന ഒരു ചട്ടക്കൂട് നിലനിർത്തുക എന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സ് തുറന്നിരിക്കണമെന്നും നിഗമനത്തിലേക്ക് പോകണമെന്നും ഞാൻ പറഞ്ഞു അത് ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധികളിൽ നിന്ന് മുക്തമായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു ബന്ധപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ തുറന്ന മനസ്സുള്ളവരും മുൻവിധികളില്ലാതെ ആളുകളുടെ വാക്കുകൾ കേൾക്കാത്തവരുമായിരുന്നെങ്കിൽ ഒരു ഡോക്ടർക്ക് എങ്ങനെ ഗർഭച്ഛിദ്രത്തിന് പോകാമായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഒരു പ്രതിഭയെ കൊല്ലുമായിരുന്നുവെന്നും ചിത്രീകരിക്കാൻ ഞാൻ ഭിതവന്റെ കഥ നൽകി അതിനാൽ നിങ്ങളുടെ മനസ്സ് തുറന്നതായിരിക്കണമെന്നും അതിന് ഒരു തരത്തിലുള്ള മുൻവിധികളും ഉണ്ടാകരുതെന്നും ഇത് മനസ്സിൽ വയ്ക്കുക നമുക്ക് മുന്നോട്ട് പോകാം ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ച് കൂടുതൽ നോക്കാം ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകൾ നിങ്ങളുടെ ശ്രവണ വൈദഗ്ദ്ധ്യം മെച്ചപ്പെടുത്തുന്നതുമായും നിങ്ങൾ ഒരു സജീവ ശ്രോതാവായി മാറുന്നതുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ മൊഡ്യൂൾ പ്രത്യേകിച്ചും ഈ പ്രഭാഷണത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു സജീവ ശ്രോതാവാക്കാൻ പോകുന്നു ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം മൊത്തത്തിൽ നിങ്ങൾ ഫലപ്രദമായ ആശയവിനിമയം നോക്കുകയാണെങ്കിൽ വിവിധ ഗവേഷണങ്ങളിൽ നിന്ന് വരുന്ന ഈ ആശയവിനിമയ ഘടകത്തെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന വസ്തുതകളുണ്ട് അതിനാൽ കേൾവിയുടെ ഏകദേശം 60 ശതമാനവും ഫലപ്രദമായ ആശയവിനിമയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു ഗവേഷണം സൂചിപ്പിക്കുന്നു ഇതിനർത്ഥം ഫലപ്രദമല്ലാത്ത ആശയവിനിമയം ഫലപ്രദവും വിജയകരവും അർത്ഥവത്തായതും ഫലപ്രദവുമായ ഒരു ആശയവിനിമയം 60 ശതമാനം പ്രധാന ഭാഗം യഥാർത്ഥത്തിൽ കേൾക്കുകയും സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നു സംസാരിക്കുന്നത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ആളുകൾ കരുതുന്നു പക്ഷേ അത് നേരെ മറിച്ചാണ് ഇപ്പോൾ ഇത് ഫലപ്രദമായ ആശയവിനിമയമാണ് ഫലപ്രദമല്ലാത്ത ആശയവിനിമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കേൾക്കുന്ന ഘടകം കുറയുകയും കുറയുകയും ചെയ്യുന്നത് 30 ശതമാനം 20 ശതമാനം 10 ശതമാനം 0 പോലും ആകാം അതിനാൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ നൽകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അതിനാൽ അത് യഥാർത്ഥത്തിൽ ഫലപ്രദമല്ലാത്ത ആശയവിനിമയത്തിന് തുല്യമാണ് ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ ഘടകം ഏതാണ് കേൾക്കുന്നത് എവിടെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ഗവേഷണം കാണിക്കുന്നത് നമ്മുടെ ശ്രവണ ശേഷിയുടെ 25 ശതമാനം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ഇത് ഒരു ഞെട്ടിക്കുന്ന ഘടകമാണ് കാരണം 60 ശതമാനം കേൾവിയും ഫലപ്രദമായ ആശയവിനിമയത്തിൽ ഏർപ്പെടുമ്പോൾ മിക്കപ്പോഴും നമ്മൾ നമ്മുടെ ശ്രവണ ശേഷിയുടെ 100 ശതമാനം ഉപയോഗിക്കാതിരിക്കുകയും നമ്മുടെ ശ്രവണശേഷി കുറവായിരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ 20 ശതമാനം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം ഇത് നിങ്ങൾക്ക് ഒരുതരം സ്വയം അവബോധം നൽകണം തുടർന്ന് ഞാൻ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലായ്പ്പോഴും എന്റെ കേൾവി ഉപയോഗിക്കുന്നില്ലേ ഞാൻ എല്ലായ്പ്പോഴും എന്റെ സംസാരം പരമാവധിയാക്കുകയും എന്റെ കേൾവി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നത് തുടരുക തുടർന്ന് ഫലപ്രദമായ ഏത് ആശയവിനിമയത്തിലും നിങ്ങളുടെ ശ്രവണ ഭാഗം പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഒരു ഗവേഷണത്തെ അടിസ്ഥാനമാക്കി നമ്മോട് പറഞ്ഞ മറ്റൊരു രസകരമായ വസ്തുത 8 മണിക്കൂർ ഇടവേളയ്ക്കുള്ളിൽ ആളുകൾ കേട്ടതിൽ 50 ശതമാനം ഓർക്കുന്നില്ല എന്നതാണ് ഇതിനർത്ഥം ഏകദേശം 8 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇപ്പോഴും എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അതിൽ 50 ശതമാനം മാത്രമേ നിങ്ങൾ ഓർക്കാൻ പോകുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾ അത് 100 ശതമാനം എങ്ങനെ ഓർക്കുന്നു അതിനാൽ സജീവമായ ശ്രവണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സംസാരിക്കുന്ന കഴിവുകൾക്ക് കീഴിൽ വരുന്ന വഴികളുണ്ട് ഒരു സജീവ ശ്രോതാവാകാനും തുടർന്ന് കാര്യങ്ങൾ 100 ശതമാനം ഓർമ്മിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമങ്ങളിലൊന്ന് കുറിപ്പുകൾ ഉപയോഗിക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് തൊട്ടുമുമ്പ് ഒരാൾ മുഖാമുഖം സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും അത് ഒരു പ്രധാന സംസാരമാണെങ്കിൽ ഒരു ചെറിയ പേപ്പർ ചെറിയ നോട്ട് പാഡ് സൂക്ഷിക്കുന്നതിൽ ഒരു ദോഷവുമില്ല തുടർന്ന് നിങ്ങൾ പ്രധാനപ്പെട്ട വാക്കുകൾ പ്രധാന വാക്കുകൾ വാക്യങ്ങൾ എന്നിവയെക്കുറിച്ച് കുറിപ്പുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 ശതമാനമല്ലെങ്കിലും ഏകദേശം 90 ശതമാനം ഓർമ്മിക്കാൻ കഴിയും ഓർമ്മിക്കാൻ കഴിയും അതിനാൽ ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ കേൾവിശക്തിയുടെ 60 ശതമാനം മാത്രമേ ഉള്ളൂ എന്ന ഈ മൂന്ന് വസ്തുതകൾ അതേസമയം ഫലപ്രദമായ ആശയവിനിമയത്തിന് 60 ശതമാനം ആവശ്യമാണെന്ന വസ്തുത ഉണ്ടായിരുന്നിട്ടും കേൾവിശക്തിയുടെ 25 ശതമാനം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ 8 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന കാര്യങ്ങളും സജീവമായ ആശയവിനിമയത്തിലും സജീവമായ ശ്രവണത്തിലും താൽപ്പര്യമുള്ള ഒരു വ്യക്തിയാക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ സാധാരണയായി ഓർക്കുന്നത് നല്ല ആശയവിനിമയം പൊതുവെ നല്ല ശ്രവണത്തെക്കുറിച്ചാണ് ഫലപ്രദമായ ആശയവിനിമയത്തിലെ പ്രധാന കഴിവുകളിലൊന്ന് നന്നായി കേൾക്കാനുള്ള കഴിവാണ് അങ്ങനെ കേൾക്കുന്നത് ആശയവിനിമയത്തിന്റെ സ്വീകരിക്കുന്ന ഭാഗമാണ് അയയ്ക്കുന്നവനും സ്വീകരിക്കുന്നവനും ഉള്ള ആശയവിനിമയ പ്രക്രിയയെക്കുറിച്ച് വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും അയച്ചയാൾ നിലവിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അയയ്ക്കുന്ന പ്രഭാഷകനാണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം എന്നാൽ സ്വീകർത്താവാണ് അത് ശ്രദ്ധിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് നിങ്ങളുടെ ചെവികളിലൂടെയും കണ്ണുകളിലൂടെയും വിവരങ്ങൾ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ല ശ്രവണമാണ് നല്ല ശ്രവണമാണ് ഊർജ്ജം ആവശ്യമുള്ളതും എങ്ങനെ എന്ന് അറിയുന്നതുമായ സജീവമായ സംയോജിത ആശയവിനിമയ വൈദഗ്ദ്ധ്യം ഇത് ലക്ഷ്യബോധമുള്ളതും ശക്തവും ഉൽപ്പാദനക്ഷമവുമാണ് ഒരു നല്ല ആശയവിനിമയക്കാരന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ആരെങ്കിലും ഒരു നല്ല ആശയവിനിമയക്കാരനാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ എന്താണ് നോക്കുന്നത് ഒരു നല്ല ആശയവിനിമയക്കാരൻ അടിസ്ഥാനപരമായി ഒരു നല്ല ശ്രോതാവാണ് ഒരു നല്ല ആശയവിനിമയക്കാരൻ എന്ന് നാം വിളിക്കുന്നയാൾ യഥാർത്ഥത്തിൽ നമ്മെ കേൾക്കാൻ വളരെ ദയയുള്ള ഒരു വ്യക്തിയാണ് അവൾ വിവിധ വാക്കാലുള്ള നോൺ വെർബൽ ചിഹ്നങ്ങൾ മോഡുലേറ്റ് ചെയ്യുന്നു ഒരേസമയം കേൾക്കുന്നതിലൂടെ അവൾ ശേഖരിക്കുന്ന പ്രതികരണത്തെ ആശ്രയിച്ച് അവൾ പ്രദർശിപ്പിക്കുന്നു ഒരു നല്ല ആശയവിനിമയക്കാരൻ മറ്റൊരാളുടെ വാക്കുകൾക്ക് മാത്രമല്ല അവന്റെ സ്വരത്തിനും മുഖഭാവങ്ങൾക്കും ശരീരഭാഷയ്ക്കും ശ്രദ്ധ നൽകുന്നു ചുരുക്കത്തിൽ ഒരു നല്ല ആശയവിനിമയക്കാരൻ ആശയവിനിമയത്തിന്റെ വാക്കാലുള്ള ഭാഗത്തോട് മാത്രമല്ല ആശയവിനിമയത്തിന്റെ വാക്കേതര ഭാഗത്തോടും വളരെ സ്വീകാര്യനും ഗ്രഹണശീലനുമാണ് കൂടാതെ പ്രഭാഷകൻ നൽകുന്ന സൂചനകളോട് പൊരുത്തപ്പെടുകയും ക്രമീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രഭാഷണത്തിന്റെ പ്രധാന ആശയം സജീവമായ ശ്രവണത്തെക്കുറിച്ചും സജീവമായ ഒരു ശ്രോതാവാകാനുള്ള നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് എന്താണ് ആക്റ്റീവ് ലിസണിംഗ് വെറുതെ കേൾക്കുന്നതിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമാണ് ഇപ്പോൾ സജീവമായ ശ്രവണമെന്നാൽ ശരീരം മുഴുവൻ കേൾക്കുക എന്നതാണ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ മനസ്സും ശരീരവും വികാരവും മാനസിക പങ്കാളിത്തവും നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഉണ്ട് ആ വ്യക്തി കണ്ണുകളും ചെവികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കണ്ണുകൾ എന്താണ് ചെയ്യുന്നത് കണ്ണുകൾ സംസാരിക്കുന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു കണ്ണുകൾ ആ വ്യക്തിയുമായി കണ്ണ് സമ്പർക്കം പുലർത്തുന്നു ഞാൻ നിങ്ങളെ പിന്തുടരുകയാണ് ഞാൻ നിങ്ങളെ നോക്കുന്നു ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു നിങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ തയ്യാറാണ് വാക്കാലുള്ള അർത്ഥവുമായി ബന്ധപ്പെട്ട നോൺ വെർബൽ ആശയവിനിമയമായ ശരീരഭാഷയും കണ്ണുകൾ തിരയുന്നു ചെവികൾ എന്താണ് ചെയ്യുന്നത് ചെവികൾ ശ്രദ്ധയോടെ കേൾക്കുന്നു ഇത് അങ്ങേയറ്റം പരിചരണം നൽകുന്നു തലച്ചോറിന്റെ കാര്യമോ തലച്ചോർ പൂർണ്ണമായും സ്വീകരിക്കുകയും പറയുന്നതിനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു അത് സ്വീകരിക്കുകയും പിന്നീട് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു അത് ചിന്തിക്കുന്നു ആശയങ്ങളെ സ്വാംശീകരിക്കുന്നു പക്ഷേ അത് പ്രതികരിക്കുന്നില്ല അത് മറ്റൊരാളെ തടയാൻ ഒന്നും ചെയ്യുന്നില്ല കാരണം വായ അടഞ്ഞിരിക്കുന്നു ഒരു സജീവ ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത തേടുന്നതുപോലുള്ള അവസരങ്ങളൊഴികെ മിക്ക സമയത്തും ചുണ്ടുകൾ അടഞ്ഞിരിക്കും അല്ലെങ്കിൽ വായ അടച്ചിരിക്കും കൈകളും കാലുകളും നിശ്ചലമാണ് അതിനാൽ ഒന്നുകിൽ അവ അടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവ മടിയിൽ വിശ്രമിക്കുന്നു അവ ക്രോസ് ചെയ്യുന്നു തുടർന്ന് അവർ വിശ്രമിക്കുന്നു കാലുകൾ കുലുങ്ങുന്നില്ല ചലിക്കുന്നുമില്ല അവർ ഇപ്പോഴും അവർ വിശ്രമത്തിലാണ് അതായത് കൈകളോ കാലുകളോ ഒരു തരത്തിലും പ്രഭാഷകന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നില്ല ഹൃദയത്തിൻറെ കാര്യമോ ഹൃദയം അനുകമ്പയുള്ളതാണ് താൽപ്പര്യവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കാൻ ശരീരം മുഴുവൻ സ്വാഭാവികമായും പ്രഭാഷകനിലേക്ക് ചായുന്നു അതിനാൽ നിങ്ങളുടെ സംസാരത്തിൽ എനിക്ക് യഥാർത്ഥത്തിൽ താൽപ്പര്യമുണ്ടെന്നും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതിൽ ഞാൻ വളരെ സഹാനുഭൂതിയുള്ളവനാണെന്നും കാണിക്കാൻ ശരീരം തന്നെ മറ്റേ വ്യക്തിയോട് അല്പം ചായുന്നു എന്നാണ് ഇതിനർത്ഥം തനിക്ക് ശ്രദ്ധാപൂർവ്വവും ചിന്താപൂർവ്വവുമായ ശ്രദ്ധയും പരിഗണനയും നൽകുന്നതായി സ്പീക്കർക്ക് തോന്നുന്നു മറ്റൊരു ശ്രോതാവായ നിങ്ങൾ ഒരു സജീവ ശ്രോതാവെന്ന നിലയിൽ വളരെ ശ്രദ്ധയോടെയും ചിന്തോദ്ദീപകമായ ശ്രദ്ധയോടെയും പ്രഭാഷകൻ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് പരിഗണിക്കുന്നുവെന്ന ധാരണ സ്പീക്കർക്ക് ലഭിക്കുന്നതിനാൽ സ്പീക്കർക്ക് സുഖം തോന്നുന്നു ഒരു സജീവ ശ്രോതാവാകാൻ എങ്ങനെ കഴിയും നിങ്ങൾ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാനും അത് മനസ്സിൽ തിരിച്ചെടുക്കാനും കഴിയുകയും അത് പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് നിങ്ങളെ താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് ഒരു സജീവ ശ്രോതാവാക്കും നിങ്ങളെ ഒരു സജീവ ശ്രോതാവാക്കുന്നതിനുള്ള പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ് ഒന്നാമതായി മര്യാദയും പരിഗണനയും പുലർത്തുക മര്യാദയോടെ വിനയത്തോടെ പെരുമാറുക ഇതിനർത്ഥം വളരെ സന്തോഷവാനായിരിക്കുക മറ്റേയാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷവാനായിരിക്കുക ശ്രദ്ധാലുവായിരിക്കുക ചിലപ്പോൾ ഒരു വ്യക്തി വന്ന് വളരെ ദാരുണമായ ഒരു കഥ പറയുകയും ആ വ്യക്തി നിങ്ങളോട് വളരെ കരയുന്ന രീതിയിൽ പറയുകയും ചെയ്തേക്കാം അതിനാൽ ശ്രദ്ധാലുവായിരിക്കുക ദയയുള്ളവരായിരിക്കുക അതിനാൽ മറ്റൊരാൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കരുത് സാധാരണയായി സ്പീക്കറെ വീട്ടിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട അതിഥിയെപ്പോലെയാണ് നിങ്ങൾ കണക്കാക്കേണ്ടതെന്ന് പറയപ്പെടുന്നു അതിനാൽ വളരെ സൌഹാർദ്ദപരമായ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലാണ് തുടർന്ന് ആ വ്യക്തിയുമായി സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ആരുമായും സംസാരിക്കാൻ ശ്രമിക്കേണ്ട രീതിയാണ് പൂർണ്ണ ശ്രദ്ധ നൽകുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ ശ്രദ്ധ വ്യതിചലിപ്പിക്കലും ഇല്ലാതാക്കുക നിങ്ങൾ ക്ലാസിലാണെങ്കിൽ ഇത് വളരെ പ്രധാനമാണ് അധ്യാപകൻ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് പൂർണ്ണമായി ശ്രദ്ധിക്കുക ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എല്ലാ വ്യതിചലനങ്ങളും ഇല്ലാതാക്കുക അതിനാൽ ഇടനാഴിയിലൂടെ ആരോ കടന്നുപോകുന്നു അതിനാൽ ആ വ്യക്തിയെ നോക്കരുത് ഈ വശത്ത് ഒരു സുന്ദരിയായ പക്ഷി വന്ന് ഒരു മരത്തിൽ ഇരുന്ന് കിലുങ്ങുന്നു അതിനാൽ പക്ഷിയെ നോക്കാൻ പ്രലോഭിപ്പിക്കപ്പെടരുത് പൂർണ്ണ ശ്രദ്ധ നൽകുക നിങ്ങൾക്ക് കൈമാറുന്ന ചിന്തകളിലും ആശയങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിലും പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങൾ ചിലപ്പോൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികമായ എല്ലാ ശ്രദ്ധ വ്യതിചലിപ്പിക്കലുകളും ഇല്ലാതാക്കുകയും ചെയ്യുക ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് മോഡിൽ അല്ലാതെ സൈലന്റ് മോഡിൽ പോലും അല്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഫോൺ റിംഗ് ചെയ്യുകയും അത് മറ്റൊരാളുടെ ചിന്താ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ വളരെ മര്യാദയില്ലാത്ത രീതിയിൽ നിങ്ങൾ അത് എടുക്കുകയും തുടർന്ന് ആ വ്യക്തിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്യുക മറ്റേയാൾ പൂർണ്ണമായും മാറ്റിവയ്ക്കപ്പെടുകയും പിന്നീട് ചർച്ച തുടരുന്ന രീതിയിലല്ലാതിരിക്കുകയും ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ ഫോൺ വെക്കുകയും തുടർന്ന് ഓ ക്ഷമിക്കണം നിങ്ങൾ തുടരുമെന്ന് പറയുകയും ചെയ്യുന്നു മറ്റൊരാൾ കുഴപ്പമില്ലെന്ന് പറയുന്നു എന്നിട്ട് നിങ്ങൾ ഓ ഇല്ല നിങ്ങൾ എന്തോ പറയുന്നു മറ്റേയാൾ വീണ്ടും പറയുന്നു ഓ ഞാൻ മറന്നു അതിനാൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നത് ഇല്ലാതാക്കുക ഫോൺ നീക്കം ചെയ്യുക ഇത് നിശബ്ദ മോഡിൽ വയ്ക്കുക ഏതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധ വ്യതിചലിപ്പിക്കുക അത് ടിവിയിൽ നിന്നോ സംഗീതത്തിൽ നിന്നോ വരുന്നതാണെന്ന് കരുതുക അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾ ആശയവിനിമയ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ തടസ്സപ്പെടുത്തരുത് ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ തടസ്സപ്പെടുത്തരുത് മറ്റൊരാൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്തും പൂർത്തിയാക്കാൻ ആ വ്യക്തിയെ അനുവദിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തി നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് മറക്കാതിരിക്കാനും മറ്റേയാൾ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് 100 ശതമാനം ഓർമ്മിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുക ചുരുക്കെഴുത്ത് ഉപയോഗിക്കുക വാക്കുകളുടെ ഹ്രസ്വ രൂപങ്ങൾ ഉപയോഗിക്കുക വാക്യങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ മുഴുവൻ വാക്യവും എഴുതേണ്ടതില്ല മറിച്ച് നിങ്ങൾ അത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ചില ആളുകൾ മുഴുവൻ സംഭാഷണവും വീണ്ടും കേൾക്കാൻ ഒരുതരം ഫ്ലോ ചാർട്ട് പോലും ഉപയോഗിക്കുന്നു ഒരു ഫ്ലോ ചാർട്ടിൻറെ രൂപത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മുഴുവൻ സംസാരവും പുനർനിർമ്മിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ രേഖപ്പെടുത്തുകയും പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കി ഓർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ആരെങ്കിലും നിങ്ങളോട് ദീർഘനേരം സംസാരിക്കുമ്പോൾ ചിന്തിക്കുക ഇത് മറ്റൊരാൾക്ക് സംഭവിച്ച ഒരു വ്യക്തിപരമായ സംഭവത്തിന്റെ വിവരണമാണെന്ന് പറയാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ചില ബുദ്ധിമുട്ടുള്ള ആശയങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു തിരിഞ്ഞുനോക്കുക ചിന്തിക്കുക നിങ്ങളുടെ മനസ്സിൽ തിരിച്ചുവരിക തുടർന്ന് നിങ്ങൾ ഇത് എത്രമാത്രം പിന്തുടരുന്നുവെന്ന് മറ്റേ വ്യക്തിയോട് പറയുക പുനർവായന ചെയ്യുക വ്യത്യസ്തമായ രീതിയിൽ പറയുക നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ ആവർത്തിക്കുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ വ്യക്തിയെ സൂക്ഷ്മമായി പിന്തുടരുന്നുവെന്ന് മറ്റേയാൾ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ശരിയായി മനസ്സിലായിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക അതിനാൽ പിന്നോട്ട് പ്രതിഫലിപ്പിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് ആ വ്യക്തി എന്താണ് പറയുന്നതെന്ന് പുനർനാമകരണം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു അങ്ങനെ അവൻ അല്ലെങ്കിൽ അവൾ എന്നെ പിന്തുടരുന്നുവെന്ന് മറ്റേയാൾ മനസ്സിലാക്കുന്നു ഇത് ചെയ്യുമ്പോൾ സ്വയം സംസാരം കുറയ്ക്കുക സംസാരം കഴിയുന്നത്ര ഒഴിവാക്കുക ഇത് ചെറുതാക്കുക നിങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് സംഭാഷണത്തിന് പ്രസക്തമല്ലാത്ത ഒരു പോയിന്റും ചേർക്കരുത് അത് നിങ്ങൾക്ക് രസകരമായി കണക്കാക്കപ്പെടുന്നു പക്ഷേ അത് നിങ്ങളുടെ വശത്ത് ചെയ്യരുത് എല്ലാ സമയത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ വ്യക്തിയെ മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ കണ്ണുകൾ ആ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയും ശരീരം മുഴുവൻ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ വ്യക്തത തേടുന്നതിനോ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ ആ വ്യക്തി തെറ്റ് ചെയ്താലും ഒരിക്കലും ചിരിക്കരുത് ഒരു തമാശ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ ആ വ്യക്തി നല്ല മാനസികാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാം പക്ഷേ ഒരിക്കലും നിഷേധാത്മകമായ അർത്ഥത്തിൽ ചിരിക്കരുത് ആ വ്യക്തി ഒരു തെറ്റ് ചെയ്യുന്നു ഒരു വീഴ്ചയുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു ഉടൻ തന്നെ അത് നിങ്ങളിൽ ചിരി ഉളവാക്കുന്നു ഒരിക്കലും ചിരിക്കരുത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ചിന്തയുടെ നിലവാരത്തിന് വളരെ താഴ്ന്ന എന്തെങ്കിലും പറയുന്നു അതിനാൽ യഥാർത്ഥത്തിൽ മറ്റൊരാളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിന്ദ്യമോ പരിഹാസ്യമോ ആയ പുഞ്ചിരി നൽകരുത് മറ്റേ വ്യക്തിക്കും അപമാനം തോന്നുകയും സംഭാഷണം നിർത്തുകയും ചെയ്യാം എന്നാൽ മറുവശത്ത് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും വാക്കാലുള്ളതും അല്ലാത്തതുമായ ആശയവിനിമയത്തിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും തലയാട്ടുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ ശക്തമായി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വാക്കേതര ആശയവിനിമയം അതിനാൽ ആരെങ്കിലും പ്രത്യേകിച്ച് അധ്യാപകൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തലയാട്ടുന്നത് തുടരുക അതിനാൽ നിങ്ങൾ ആ വ്യക്തിയെ സജീവമായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അത് അധ്യാപകനെ അറിയിക്കുന്നു ആ വ്യക്തി നിങ്ങൾക്കും ഒരു സുഹൃത്തിനും പരിചിതമാണെങ്കിൽ പുഞ്ചിരിക്കുക മുന്നോട്ട് നീങ്ങുക അതിനാൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു പ്രഭാഷകൻറെ കണ്ണുകളിലേക്ക് നോക്കുക ഇപ്പോൾ അത് അനൌപചാരികമാണെങ്കിൽ നിങ്ങൾ ബോസ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന വ്യക്തിയാണെങ്കിൽ അധികാര ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അൽപ്പം ഉയർന്ന തലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് തോളിൽ തട്ടാം അല്ലെങ്കിൽ അത് രണ്ട് അടുത്ത ആളുകൾക്കിടയിലുള്ളതാണെങ്കിൽ മറ്റേയാൾക്ക് സുഖം തോന്നാൻ നിങ്ങൾക്ക് പോലും കെട്ടിപ്പിടിക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയിൽ മറ്റേയാൾക്ക് സംസാരിക്കാൻ പ്രോത്സാഹനം തോന്നും മറ്റേയാൾക്ക് നിങ്ങളിൽ ഊഷ്മളത അനുഭവപ്പെടും വാക്കാലുള്ള നിങ്ങൾക്ക് പറയാൻ കഴിയും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും ഓ അത് നല്ലതാണ് അതിശയകരമാണ് രസകരമാണ് തുടരുക അതിനാൽ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്ന വാക്യങ്ങളാണിവ അതേസമയം ശ്രമങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക അവൻ അല്ലെങ്കിൽ അവൾ ശ്രദ്ധേയമായ എന്തെങ്കിലും ചെയ്തുവെന്ന് ആ വ്യക്തി നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് അവിടെയും അവിടെയും അംഗീകരിക്കുക വാസ്തവത്തിൽ അവർ ചെയ്തതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്തു വൌ അത്ര അത്ഭുതകരമായിരുന്നില്ല നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അത് ഒരു അത്ഭുതകരമായ ആശയമായിരുന്നു അത് ചെയ്യാൻ ഒരു അതിശയകരമായ കാര്യമായിരുന്നു അത് ഒരു മികച്ച ജോലിയാണ് മികച്ച ജോലിയാണ് നിങ്ങൾ അത് ചെയ്യാൻ ഒരു പ്രതിഭയാണ് ഇപ്പോൾ വീണ്ടും ശ്രമങ്ങൾ അംഗീകരിക്കുന്നത് ആ വ്യക്തിയെ പുറത്തുവരാൻ പ്രേരിപ്പിക്കുകയും തുടർന്ന് ആ വ്യക്തി എന്താണ് നേടിയതെന്നോ ആ വ്യക്തി എന്താണ് ചെയ്തതെന്നോ കൂടുതൽ നിങ്ങളോട് പറയുകയും ചെയ്യും നിശബ്ദത ഉപയോഗിക്കുക ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സംസാരിക്കുന്നത് തുടരണം അല്ലെങ്കിൽ സജീവമായ ഒരു ശ്രോതാവായി എന്തെങ്കിലും ചെയ്യണമെന്ന് പലരും കരുതുന്നു എന്നാൽ സജീവമായ ഒരു ശ്രോതാവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നാണ് നിശബ്ദത നിശബ്ദത വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക കാരണം നിശബ്ദത നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ ഒരു ബിസിനസ്സ് വ്യക്തിയാണെങ്കിൽ ഉപഭോക്താവിനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു അഭിഭാഷകനാണെങ്കിൽ ഇടപാടുകാരനോ അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകനാണെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ വിദ്യാർത്ഥിയോ ആണെങ്കിൽ യഥാർത്ഥത്തിൽ തുറന്നുപറയാൻ കഴിയും അതിനാൽ ആ വ്യക്തി വന്നിരിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയും മറ്റൊരാളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ മറ്റൊരാളുമായി സംസാരിക്കുകയും ചെയ്താൽ മറ്റേയാൾ തുറന്നുപറയില്ല അതിനാൽ ഒരു അർത്ഥത്തിൽ നിശബ്ദത ഉപയോഗിക്കുക ഒരുതരം ആശ്വാസകരമായ ശാന്തതയായി നിശബ്ദത ഉപയോഗിക്കുക നിങ്ങൾ ശാന്തനാണ് പക്ഷേ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങളുടെ ആംഗ്യത്തിൽ ഊഷ്മളത കാണിക്കുന്നു പക്ഷേ തണുത്ത അർത്ഥത്തിൽ നിശബ്ദമല്ല നിശബ്ദമല്ല മറിച്ച് തണുപ്പാണ് പക്ഷേ ശാന്തമാണ് പക്ഷേ ഊഷ്മളമാണ് അതിനാൽ ഓരോ വ്യക്തിയും നിങ്ങളുടെ അടുത്തേക്ക് വരികയും തുടർന്ന് അവരുടെ അഭിപ്രായം പങ്കിടുകയും ചെയ്യും ദീർഘകാലത്തേക്ക് സംഭാഷണം നീണ്ടുനിൽക്കുമ്പോൾ ആ വ്യക്തി പറയുന്നതെന്തും നിങ്ങൾക്ക് ഹ്രസ്വമായി സംഗ്രഹിക്കാൻ കഴിയും അത് നിങ്ങൾ കുറച്ച് ആശങ്ക കാണിക്കുന്നുവെന്നും തുടർന്ന് നിങ്ങൾ ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും തുടരുകയും ചെയ്യുന്നുവെന്നും സൂചിപ്പിക്കും വ്യക്തത തേടാൻ മടിക്കരുത് പ്രത്യേകിച്ചും മറ്റേയാൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തപ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കേണ്ടതില്ല ദയവായി ഈ കാര്യം എന്നോട് വ്യക്തമാക്കാമോ ക്ഷമിക്കണം നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഈ പോയിന്റ് പിന്തുടരാൻ എനിക്ക് കഴിഞ്ഞില്ല ദയവായി വീണ്ടും വിശദീകരിക്കാനോ മറ്റൊരു രീതിയിൽ വീണ്ടും എന്നോട് പറയാനോ കഴിയുമോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ എനിക്ക് മറ്റൊരു ചിത്രീകരണ ഉദാഹരണം നൽകാമോ ഇപ്പോൾ ഈ ആക്റ്റീവ് ലിസണിംഗ് ടെക്നിക്കുകളിൽ ചിലത് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മറ്റേ വ്യക്തിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാത്ത ധാരാളം ചിന്തകളും ആശയങ്ങളും മറ്റേ പ്രഭാഷകനെ നിങ്ങൾക്കായി തുറന്നുകാട്ടുന്ന കാര്യങ്ങളാണിവ ഇപ്പോൾ അവസാനത്തേത് എന്നാൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഒരു സംഭാഷണം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന എന്റെ അഭിപ്രായത്തിൽ പലരും സമാപന ഭാഗം നഷ്ടപ്പെടുത്തുന്നു ഓടരുത് തിടുക്കപ്പെടരുത് മറ്റേയാൾ നിങ്ങളെ നിർബന്ധിച്ചതുകൊണ്ടും സംസാരിച്ചതുകൊണ്ടും നിങ്ങൾ കേൾക്കുന്നുവെന്ന് അവരെ കാണിക്കരുത് മതിയായ സമയം നൽകുക അപ്പോയിന്റ്മെന്റ് നിശ്ചയിക്കുക തുടർന്ന് നിങ്ങൾ തിരക്കിലാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് നൽകരുത് എന്നാൽ നിങ്ങൾ സ്വതന്ത്രരാണെങ്കിൽ അവർക്ക് സമയം നൽകുക തുടർന്ന് ആ വ്യക്തിയെ സംസാരിക്കാൻ അനുവദിക്കുക അവസാനം അവർക്ക് മതിയായ സമയം നൽകുക പ്രഭാഷകന് നന്ദി പറയുകയും നിങ്ങളുടെ അഭിനന്ദനം പ്രകടിപ്പിക്കുകയും ചെയ്യുക നിങ്ങളോട് സംസാരിക്കുന്നത് നല്ലതാണ് നിങ്ങളെ കേൾക്കുന്നത് അത്ഭുതകരമാണ് നിങ്ങൾ എനിക്ക് നൽകിയ സമയത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി വന്ന് നിങ്ങളെ കണ്ടുമുട്ടുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് ആ വ്യക്തിക്ക് വീണ്ടും തോന്നുന്നു അതിനാൽ എല്ലായ്പ്പോഴും നല്ല വികാരത്തോടെ പ്രഭാഷകനെ വിട്ടയക്കുക അതിനാൽ സ്പീക്കർ ഖേദത്തോടെ പോകരുത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയുമായി സംസാരിക്കുമ്പോഴെല്ലാം വന്ന് സംസാരിച്ചത് എന്നിട്ട് അദ്ദേഹം എന്നെ എന്റെ ആശയങ്ങളുമായി പുറത്തുവരാൻ അനുവദിക്കുന്നില്ല അദ്ദേഹം സ്വന്തം ആശയങ്ങൾ ഉപയോഗിച്ച് ബോംബെറിയുകയാണ് അവസാനമായി വളരെ നിരാശനായ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നാൽ അൽപ്പം നിരുത്സാഹപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്താൽ നിരാശനായ ഒരാളെ കുറച്ച് പ്രതീക്ഷയോടെ വിടുക ആ വ്യക്തി പോകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം നിങ്ങൾ ഇവയെല്ലാം പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ഒരു സജീവ ശ്രോതാവായി മാറും ഒടുവിൽ നിങ്ങൾ വളരെ ഫലപ്രദമായ ആശയവിനിമയക്കാരനായി മാറുകയും നിങ്ങൾക്ക് ചുറ്റുമുള്ള കമ്പനിയ്ക്ക് ശേഷം നിങ്ങൾ വളരെ മൃദുവായിരിക്കും തൊഴിലുടമകളുടെ സർക്കിളിലും നിങ്ങൾ വളരെ ആവശ്യമുള്ള ഒരു ജീവനക്കാരനായിരിക്കും അതിനാൽ അവർ നിങ്ങളെപ്പോലുള്ള ആളുകളെ തിരയുന്നു അതിനാൽ ഈ ചെറിയ ഉദ്ധരണിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ഉപസംഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സജീവ ശ്രവണ വൈദഗ്ദ്ധ്യം വികസിപ്പിക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്നത് മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്നത് മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും പഠിക്കാം അതിനാൽ നിങ്ങളുടെ മന്ത്രം സംസാരിക്കുന്നതിനാൽ ഇത് സൂക്ഷിക്കുക കുറച്ച് കേൾക്കുക കൂടുതൽ കേൾക്കുക